ഇലാസ്തികത സിദ്ധാന്തത്തിന്റെ അവലോകനത്തെക്കുറിച്ചുള്ള ചർച്ച തുടരാം ഈ അവലോകനത്തിൽ കാണുക വിശദമായ വ്യുൽപ്പന്നങ്ങളിലേക്ക് കടക്കുന്നതിനുപകരം ഇലാസ്തികത സിദ്ധാന്തത്തിൽ നമ്മൾ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതിന്റെ ചില പ്രധാന വശങ്ങൾ എടുത്തുകാണിക്കാൻ ഞാൻ ശ്രമിക്കും നമ്മൾ എന്തു ചർച്ച നടത്തിയാലും പരോക്ഷമായ രീതിയിൽ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ വികസിപ്പിക്കാൻ ഇത് സഹായിക്കും വിള്ളൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വികസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഈ അറിവ് ആവശ്യമാണ് ഒരേപോലെ വിതരണം ചെയ്ത ലോഡിന് കീഴിലുള്ള ബീമിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അവസാന ക്ലാസ്സിൽ ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്ന ലോഡിന് കീഴിലുള്ള ഒരു ബീം കേസിനുള്ള പരിഹാരം നമ്മൾ ചർച്ചചെയ്യാൻ തുടങ്ങി വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു എനിക്ക് ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്ന ലോഡ് ഷിയർ ഫോഴ്സ് ഉള്ളപ്പോൾ ബീമിന്റെ നീളത്തിൽ വ്യത്യാസമുണ്ട് അത് സ്ഥിരമായി അവശേഷിക്കുന്നില്ല ഇത് ബീം നീളത്തിൽ വ്യത്യാസപ്പെടുന്നു ബീമിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് ഷിയർ വ്യത്യാസപ്പെടുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്ചർ ഫോർമുല മേലിൽ സാധുവല്ല ഫ്ലെക്ചർ ഫോർമുല സാധുവാണ് സ്ഥിരമായ ബെൻഡിങ് മോമെന്റിനു മാത്രം ഒരു അപവാദമായി നമ്മൾ കണ്ടു നിങ്ങൾക്ക് സ്ഥിരമായ കത്രിക ഷിയർ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു അപവാദമായി ഉപയോഗിക്കാം നിങ്ങൾക്ക് ആഴത്തിലുള്ള ബീമുകളുണ്ടെങ്കിൽ വീണ്ടും ഒരു കത്രിക സംയോജനം ഉണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടെത്തിയത് ഷിയറിൻറെ ദൈർഘ്യം ബീമിന്റെ ദൈർഘ്യത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു അതിനാൽ തീർച്ചയായും ഫ്ലെക്ചർ ഫോർമുല ബാധകമല്ല ലോഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും തലം വിഭാഗങ്ങൾ തലം നിലനിൽക്കില്ല അതിനാൽ ഇലാസ്തികത സിദ്ധാന്തത്തിലൂടെ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പരിഹാരം പ്രതീക്ഷിക്കേണ്ടതുണ്ട് മറ്റൊരു വശം വളയുന്ന നിമിഷ രേഖാചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കേന്ദ്രീകൃത ശക്തികളുടെ കാര്യം ഏറ്റെടുക്കുന്നു നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് വളവ് ഉണ്ടായിരിക്കാം വിതരണം ചെയ്ത ലോഡിംഗിനേക്കാൾ എനിക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കാം എന്നാൽ ഇലാസ്തികത സിദ്ധാന്തം ഉപയോഗിച്ച് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ ലോഡിംഗ് ഇതുപോലെ വിതരണം ചെയ്യുമ്പോൾ അതിർത്തി വ്യവസ്ഥകൾ എളുപ്പത്തിൽ വ്യക്തമാക്കാം അതിനാൽ ഇലാസ്തികത സിദ്ധാന്തത്തിൽ ആശയങ്ങൾ വികസിപ്പിക്കുമ്പോൾ ഏറ്റെടുക്കുന്ന ഏറ്റവും ലളിതമായ പ്രശ്നമാണിത് കാരണം അതിർത്തി വ്യവസ്ഥകൾ വ്യക്തമാക്കാം ആദ്യത്തേത് നിങ്ങൾ ചെയ്യുന്നത് അതിർത്തി വ്യവസ്ഥ എഴുതുന്നതിനായി പിന്തുണാ പ്രതികരണങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നു അവസാന മുഖങ്ങളിൽ ഷിയർ ലോഡിംഗ് വഴി ഇതാണ് വ്യക്തതയ്ക്കായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിനുള്ള സമ്മർദ്ദ പ്രവർത്തനം എന്താണ് ഈ പ്രശ്നത്തിനായുള്ള സ്ട്രെസ് ഫംഗ്ഷൻ 2 x സ്ക്വയേർഡ് കൂട്ടണം b 3 x സ്ക്വയേർഡ് y കൂട്ടണം d 3 y ക്യൂബ് കൂട്ടണം d 5 x സ്ക്വയേർഡ് y ക്യൂബ് കുറക്കണം 1 ഹരിക്കണം 5 d 5 y പവർ 5 എന്നത് ഫൈ ക്ക് തുല്യമാണ് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഡിഗ്രി 2 ന്റെ പോളിനോമിയൽ ഡിഗ്രി 3 ന്റെ പോളിനോമിയൽ ഡിഗ്രി 5 ന്റെ പോളിനോമിയൽ എന്നിവയുടെ ചില ഘടകങ്ങൾ നിങ്ങൾക്കുണ്ട് ആളുകൾ എങ്ങനെ എത്തിച്ചേരും സജ്ജീകരിച്ച നടപടിക്രമങ്ങളൊന്നുമില്ല പരീക്ഷണങ്ങളിലൂടെയും പിശകിലൂടെയും ആളുകൾ അതിൽ എത്തിച്ചേരുന്നു ചില യുക്തിസഹമായ ന്യായവാദം അവർക്ക് അത് നൽകാൻ കഴിയും എന്നാൽ ഈ സ്ട്രെസ് ഫംഗ്ഷൻ വ്യക്തമാക്കിയാൽ മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും നിങ്ങൾ സ്ട്രെസ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് a 2 b 3 d 3 d 5 എന്നീ ഗുണകങ്ങളുണ്ട് ഇവ നിർണ്ണയിക്കേണ്ടതുണ്ട് എനിക്ക് 1 2 3 4 ഗുണകങ്ങളുണ്ട് ഇവ 4 ഗുണകങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് നിങ്ങൾ അതിർത്തി വ്യവസ്ഥകൾ നോക്കുന്നു അവ നിങ്ങൾക്ക് ഗുണകങ്ങൾ ലഭിക്കുന്നതിന് മതിയായ എണ്ണം സമവാക്യങ്ങൾ നൽകുന്നു അതിർത്തി വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ബീം കേന്ദ്രമായിട്ടാണ് ഉത്ഭവം എടുത്തതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് പ്ലസ് h ഹരിക്കണം 2 ഉം മൈനസ് h ഹരിക്കണം 2 ഉം ഉണ്ട് h ഹരിക്കണം 2 ന് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വിതരണം ചെയ്ത ലോഡ് ഉണ്ട് നാം ഒരു യൂണിറ്റ് കനം പരിഗണിക്കുന്നു അതിനാൽ സിഗ്മ y തന്നെ മൈനസ് q ആയി മാറുന്നു അതിനാൽ മുകളിലെ ഉപരിതലത്തിൽ നിങ്ങൾ അതിർത്തി വ്യവസ്ഥ വ്യക്തമാക്കുന്നു ചുവടെയുള്ള ഉപരിതലത്തിലും നിങ്ങൾ അതിർത്തി വ്യവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ട് സിഗ്മ y 0 ത്തിന് തുല്യമാണ് മുകളിലും താഴെയുമുള്ള പ്രതലങ്ങളിൽ y പ്ലസ് അല്ലെങ്കിൽ മൈനസ് h ഹരിക്കണം 2 ന് തുല്യമാണ് കത്രിക സമ്മർദ്ദം 0 ആണ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന മറ്റ് വ്യവസ്ഥകൾ ഏതാണ് ഈ അരികിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എഴുതാം അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള സന്തുലിത ആവശ്യകതകളാൽ ഉൾക്കൊള്ളുന്നു കാരണം ഇവിടെ നമുക്കറിയാവുന്നത് കത്രിക ശക്തി മാത്രമാണ് നമുക്ക് അറിയില്ല എന്താണ് വിതരണം നിങ്ങളുടെ പരിഹാര പ്രക്രിയയുടെ ഭാഗമായി വിതരണം നേടേണ്ടതുണ്ട് അതിനാൽ എനിക്ക് ഈ അരികിൽ മാത്രമേ എഴുതാൻ കഴിയൂ ഇന്റഗ്രൽ മൈനസ് h ഹരിക്കണം 2 മുതൽ പ്ലസ് h ഹരിക്കണം 2 ടോ xydy qL ഹരിക്കണം 2 ന് തുല്യമാണ് അതാണ് എനിക്ക് എഴുതാൻ കഴിയുന്നത് ടോ xyയുടെ വ്യക്തിഗത മാഗ്നിറ്റ്യൂഡുകൾ മുകളിലെ മുഖത്ത് ഞാൻ എന്താണ് ചെയ്തത് ചുവടെയുള്ള മുഖം എന്നിവ വ്യക്തമാക്കാൻ എനിക്ക് കഴിയില്ല ഇതുപോലുള്ള ഒരു അളവിന് തുല്യമായ ഇന്റഗ്രൽ മാത്രമേ എനിക്കറിയൂ നിങ്ങൾക്ക് ഇവിടെ മറ്റെന്താണ് ഉള്ളത് X ദിശയിൽ ഒരു ശക്തിയും ഇല്ല ഒരു നിമിഷവുമില്ല അവ പ്രസക്തമായ വ്യവസ്ഥകളായി പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ എനിക്ക് ഇന്റഗ്രൽ ഉണ്ട് മൈനസ് h ഹരിക്കണം 2 മുതൽ h ഹരിക്കണം 2 സിഗ്മ x dy വരെ 0 ന് തുല്യമാണ് ആകെ ബലം 0 ആണ് നിങ്ങൾക്ക് മൈനസ് h ഹരിക്കണം 2 മുതൽ പ്ലസ് h ഹരിക്കണം 2 സിഗ്മ xydY 0 ന് തുല്യമാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് മോമെന്റ്റ് നൽകുന്നു നിങ്ങൾ അതിർത്തി വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗുണകങ്ങൾ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയും ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഫൈ എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ സിഗ്മ x സിഗ്മ y ടോ xy എന്നിവയ്ക്കുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം അതിനാൽ ഈ സമ്മർദ്ദ അളവുകൾ എന്താണെന്ന് നമ്മൾ നേരിട്ട് പരിശോധിക്കും എനിക്ക് സിഗ്മ xx q ഹരിക്കണം 8I ഗുണിക്കണം 4x സ്ക്വയേർഡ് കുറക്കണം L സ്ക്വയർ y ആയി ലഭിക്കുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇതുപോലെ നോക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒന്നാണെന്ന് തോന്നുന്നു ചുരുക്കത്തിൽ ഇത് നിങ്ങളുടെ ഫ്ലെക്ചർ ഫോർമുലയിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല ഈ പദം M y ഹരിക്കണം I അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ പരിഹാരത്തിന്റെ ഒരു ഭാഗം മെറ്റീരിയൽ സമീപനത്തിന്റെ കരുത്തിൽ നമ്മൾ കണ്ടതിന് തുല്യമാണ് എന്നാൽ ഒരു അധിക പദം ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു തിരുത്തൽ ഘടകമാണ് ഇത് q ഹരിക്കണം 60I 3h സ്ക്വയേർഡ് y കുറക്കണം 20y ക്യൂബ് നൽകുന്നു അതിനാൽ ഇലാസ്തികത സിദ്ധാന്തം തലങ്ങളുടെ രൂപഭേദം തിരിച്ചറിയുന്നു മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയെയും അതിർത്തി വ്യവസ്ഥകളെയും അനുയോജ്യതയെയും നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു ഒടുവിൽ നമുക്ക് ഒരു പരിഹാരം ലഭിക്കും കാരണം നമ്മൾ സ്ഥാനചലന ചിത്രത്തെക്കുറിച്ച് ഒരു അനുമാനവും നടത്തിയിട്ടില്ല പരിഹാര പ്രക്രിയയുടെ ഭാഗമായാണ് സ്ഥലംമാറ്റം വിലയിരുത്തുന്നത് അതിനാൽ ഒരർത്ഥത്തിൽ ഇലാസ്റ്റിസിറ്റി സമീപന സിദ്ധാന്തത്തിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തി ഇത് വിപുലീകരിച്ചു അതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് മെറ്റീരിയൽ പരിഹാരത്തിന്റെ കരുത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സിഗ്മ yy യ്ക്കായി എനിക്ക് ഒരു പദപ്രയോഗമുണ്ട് സിഗ്മ yy ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകപോലുമില്ല അത് q ഹരിക്കണം 24I ഗുണിക്കണം 4y ക്യൂബ് കുറക്കണം 3h സ്ക്വയേർഡ് y കുറക്കണം h ക്യൂബ് ആയി നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് ടോ xy ഉണ്ട് അത് qx ഹരിക്കണം 8I ഗുണിക്കണം h സ്ക്വയേർഡ് കുറക്കണം 4y സ്ക്വയർ ഉണ്ട് മെറ്റീരിയൽ ലായനിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് തുല്യമാണിത് ഷിയർ ഫോഴ്സ് x ന്റെ സ്ഥാനം കാരണം വ്യത്യാസപ്പെടുന്നു നിങ്ങൾക്ക് ഇവിടെ qx എന്ന പദം ഉണ്ട് നിങ്ങൾക്ക് ഒരു പരാബോളയായി ഷിയർ ഫോഴ്സ് വിതരണം ലഭിക്കും അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് രണ്ട് അളവുകളുണ്ട് അവ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് സിഗ്മ xx നായി അധിക പദമുണ്ട് കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു സ്ട്രെസ് ഘടകവും സിഗ്മ yy ഉണ്ട് കാരണം മുകളിലെ ഉപരിതലത്തിൽ നിങ്ങൾ സന്തുലിതാവസ്ഥയെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഈ അളവുകൾ എത്ര ചെറുതാണെങ്കിലും പകരം അത് 0 ലേക്ക് പോകില്ല ഇത് ഈ സ്ലൈഡിൽ ചിത്രീകൃതമായി പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ബീമിലെ ക്രോസ് സെക്ഷൻ ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് വളയുന്ന സമ്മർദ്ദമുണ്ട് അത് മെറ്റീരിയലുകളുടെ ശക്തി പോലെ രേഖീയമായി വ്യത്യാസപ്പെടുന്നു നിങ്ങൾക്ക് കത്രിക സമ്മർദ്ദമുണ്ട് പരാബോളിക് കൂടിയാണ് ഇത് മുകളിലും താഴെയുമുള്ള ഉപരിതലം നിങ്ങൾക്കറിയാം കത്രിക 0 ആണ് കൂടാതെ നിങ്ങൾക്ക് സിഗ്മ x എന്ന തിരുത്തൽ പദം ഉണ്ട് നോക്കൂ ഇത് ഒരു സ്കീമാറ്റിക് പ്രാതിനിധ്യം മാത്രമാണ് ഈ സമ്മർദ്ദത്തിന്റെയും ഇതിന്റെയും വ്യാപ്തി നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഇത് വളരെ ചെറുതായിരിക്കാം വ്യതിയാനം ദൃശ്യവൽക്കരിക്കുന്നതിന് അത് വലുതായി വരയ്ക്കുന്നു അതുപോലെ തന്നെ സിഗ്മ y യുടെ കാര്യവും അതിനാൽ നിങ്ങളുടെ ഇലാസ്തികത പ്രക്രിയയുടെ സിദ്ധാന്തത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് രണ്ട് അധിക അളവുകൾ ലഭിക്കും അതിനാൽ നിങ്ങൾ ഒരേപോലെ വിതരണം ചെയ്ത ലോഡിന് കീഴിലുള്ള ബീം പ്രശ്നം എടുക്കുകയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ പരിഹാരം ഈ ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു ഇത് ശരിയായ പരിഹാരം മാത്രമാണ് മെറ്റീരിയലുകളുടെ കരുത്ത് നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ് എഞ്ചിനീയറിംഗ് വിശകലനത്തിന് ഇത് മതിയാകും തിരുത്തൽ പദം സിഗ്മ x ലേക്ക് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിഗ്മ y ഉൾപ്പെടുത്താത്തതിലൂടെ നമ്മൾ ഗുരുതരമായ തെറ്റ് വരുത്തുന്നില്ല മറ്റൊരു വശം കൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാം അതിർത്തിയിലെ അവസ്ഥ എനിക്ക് എളുപ്പത്തിൽ വ്യക്തമാക്കാൻ കഴിയുമെന്നതിനാൽ ബീമിലെ വിതരണം ചെയ്ത ലോഡിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് സുഖകരമായി പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് നോക്കൂ എന്റെ സ്ട്രെസ് ഫംഗ്ഷനും വളരെ ലളിതമായിരുന്നു എനിക്ക് പോളിനോമിയലുകളുടെ സംയോജനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോളിനോമിയലുകളുടെ ചില നിബന്ധനകൾ തിരഞ്ഞെടുത്ത് ഇട്ടു പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു ഇത് കുറച്ച് വശങ്ങളിൽ മെറ്റീരിയൽ പരിഹാരത്തിന്റെ ശക്തിയുമായി പൊരുത്തപ്പെട്ടു അതുവഴി നമ്മൾ ശരിയായ ദിശയിലാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ പലതും കേന്ദ്രത്തിൽ കേന്ദ്രീകൃത ലോഡുള്ള ഒരു ബീമിലെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതായത് 3 പോയിന്റ് വളയുന്നു സ്ട്രെസ് ഫംഗ്ഷനുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ നിങ്ങൾക്ക് ഫ്യൂറിയർ സീരീസ് ലഭിക്കുമെന്ന് നമ്മൾ ഇതിനകം കണ്ടു നിരവധി ഹാർമോണിക്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങൾ വളരെ രസകരമായ ഒരു വശം കൊണ്ടുവരും ഈ സാഹചര്യത്തിൽ നോക്കൂ ബീമിന്റെ ആഴത്തെക്കാൾ കത്രിക വ്യത്യാസപ്പെടുന്നു സാന്ദ്രീകൃത ലോഡിന്റെ കാര്യത്തിൽ നിങ്ങൾ സാന്ദ്രീകൃത ലോഡിലേക്ക് അടുക്കുമ്പോൾ കത്രിക പരാബോളിക്കായി വ്യത്യാസപ്പെടില്ല നിങ്ങൾക്ക് ഉപരിതലത്തിന് തൊട്ടുതാഴെയുള്ള മുകളിലെ ഉപരിതല ഷിയറിൽ സാന്ദ്രീകൃത ലോഡ് ഉള്ളതിനാൽ അത് വളരെ ഉയർന്നതായിരിക്കും അത് 0 ആയി കുറയും മൊത്തത്തിലുള്ള കത്രിക ശക്തി അതേപടി നിലനിൽക്കും ആശയക്കുഴപ്പമില്ല എന്നാൽ ഷിയർ ഫോഴ്സ് വിതരണം വളരെ വ്യത്യസ്തമായിരിക്കും 3 പോയിന്റ് വളയുന്നതിലെ ഒരു ബീമിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് തിമോഷെങ്കോ നിങ്ങൾക്ക് പേജുകൾക്ക് ശേഷം പേജുകൾ ആയി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ലോഡിംഗ് പോയിന്റുകളിലേക്ക് പോകുമ്പോൾ കത്രിക വ്യതിയാനത്തിന്റെ ഒരു പ്രധാന ഫലം വ്യത്യസ്തമാണ് കൂടുതൽ ശക്തിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ ഡിസൈൻ സാഹചര്യത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബീം പരാജയപ്പെടും പോളാർ കോർഡിനേറ്റിലെ സ്ട്രെസ് ഫംഗ്ഷന്റെ രൂപം അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം മെറ്റീരിയലിന്റെ ശക്തി ഒരു നിശ്ചിത അളവിലുള്ള അറിവ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പരിഹാര രീതി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇലാസ്തികത സിദ്ധാന്തം അത് യുക്തിസഹമായി നേടി കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളിലെ പ്രശ്നം നമ്മൾ നേരത്തെ പരിശോധിച്ചതായി നിങ്ങൾക്കറിയാം പോളാർ കോ ഓർഡിനേറ്റുകളിലെ പ്രശ്നം ഇപ്പോൾ നോക്കാം ധ്രുവീയ കോർഡിനേറ്റുകളിലെ ദ്വി ഹാർമോണിക് സമവാക്യത്തിന്റെ സ്വഭാവം എന്താണ് ഡെൽ സ്ക്വയർ എന്താണെന്ന് നമ്മൾ നിർവചിക്കും അതിനാൽ അനുയോജ്യത ഡെൽ സ്ക്വയേർഡ് സിഗ്മ r കൂട്ടണം സിഗ്മ തീറ്റ 0 ത്തിന് തുല്യമാണ് ഡെൽ സ്ക്വയർ ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ r സ്ക്വയേർഡ് കൂട്ടണം 1 ഹരിക്കണം r ഡോ ഹരിക്കണം r സ്ക്വയേർഡ് ഡോ സ്ക്വയർഡ് ഹരിക്കണം ഡോ തീറ്റ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു നോക്കു വാസ്തവത്തിൽ അനന്തമായ പ്ലേറ്റിലെ വിള്ളൽ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള വെസ്റ്റർഗാർഡിന്റെ സമീപനത്തിലൂടെ നമ്മൾ ആദ്യം പരിഹരിക്കും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ് വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫീൽഡ് സമവാക്യം നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകളിൽ എത്തിച്ചേരുന്നതിന് നിങ്ങൾ അനലിറ്റിക് ഫംഗ്ഷനുകൾ ഉപയോഗിക്കും പിന്നീട് വിള്ളൽ പ്രശ്നങ്ങൾക്കുള്ള വില്യമിന്റെ രീതിശാസ്ത്രവും നമ്മൾ പരിശോധിക്കും ആ സമീപനം യഥാർത്ഥത്തിൽ ഒരു ധ്രുവ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത് അതിനാൽ ഇത് പഠിക്കുന്നത് ഒരുപോലെ പ്രധാനമാണ് മറ്റൊരു കാരണം ഞാൻ ഈ ധ്രുവീയ കോർഡിനേറ്റുകളെ മറയ്ക്കുന്നതിനുള്ള കാരണം വാസ്തവത്തിൽ പൊതു താൽപ്പര്യത്തിന്റെ പല പ്രശ്നങ്ങളും നിങ്ങൾ ധ്രുവീയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തുന്നു എന്താണ് ഫൈ എന്ന് നിങ്ങൾ നിർവചിക്കുന്ന നിമിഷം സിഗ്മ rr സിഗ്മ തീറ്റ തീറ്റ ടോ r തീറ്റ എന്നിവയ്ക്കുള്ള പദപ്രയോഗം ഇതുപോലെ വ്യക്തമാക്കുന്നു സിഗ്മ rr 1 ഹരിക്കണം r ഡോ ഫൈ ഹരിക്കണം ഡോ r കൂട്ടണം 1 ഹരിക്കണം r സ്ക്വയേർഡ് ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ തീറ്റ സ്ക്വയർ ആയും സിഗ്മ തീറ്റ തീറ്റ ഡോ സ്ക്വയേർഡ് ഫൈ ഹരിക്കണം ഡോ r സ്ക്വയർഡ് ടോ r തീറ്റ സമം 1 ഹരിക്കണം r ഡോ ഫൈ ഹരിക്കണം ഡോ തീറ്റ യുടെ മൈനസ് ഡോ ഹരിക്കണം ഡോ r എന്നും തന്നിരിക്കുന്നു വാസ്തവത്തിൽ ന്യൂമോണിക് രീതി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പദപ്രയോഗങ്ങൾ ഓർമ്മിക്കാൻ കഴിയും നിങ്ങൾ കാർട്ടീഷ്യനെയും ധ്രുവത്തെയും നോക്കുകയാണെങ്കിൽ അവ വീണ്ടും വീണ്ടും നോക്കുന്നതിലൂടെ ഇത് എങ്ങനെ ഓർമിക്കണമെന്ന് നിങ്ങൾക്കറിയാം കാരണം അവ വളരെ അടിസ്ഥാനപരമായ അളവുകളാണ് അതിനാൽ ഇവിടെയുള്ള ആശയം കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾ പഠിച്ച അറിവ് ഇവിടെയും സഹായിക്കും നിങ്ങൾക്ക് ഈ ഡെൽ സ്ക്വയർ ഈ രീതിയിൽ നൽകിയിട്ടുണ്ട് ഫൈ വ്യക്തമാക്കികഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്മ r സിഗ്മ തീറ്റ ടോ r തീറ്റ എന്നിവ കണ്ടെത്താനാകും ധ്രുവീയ കോർഡിനേറ്റുകളിലെ സമ്മർദ്ദ പ്രവർത്തനത്തിന്റെ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കിയതിന് സമാനമാണ് ഇത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ പരിശോധിച്ചു എനിക്ക് പോളിനോമിയൽ ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കാം എനിക്ക് ഫോറിയർ സീരീസ് ഉണ്ടായിരിക്കാം സ്ട്രെസ് ഫംഗ്ഷൻ സൃഷ്ടിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥികളായി എനിക്ക് വിശകലന പ്രവർത്തനങ്ങൾ നടത്താം ധ്രുവീയ കോർഡിനേറ്റുകളുടെ കാര്യത്തിൽ ജനറിക് ഫോം r ന്റെ പ്രവർത്തനത്തിന് തുല്യമാണ് ഇത് കോസ് n തീറ്റ അല്ലെങ്കിൽ സൈൻ n തീറ്റ കൊണ്ട് ഗുണിക്കുന്നു തീറ്റയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ പൊതുവായ ഒരു പദപ്രയോഗം എടുക്കുന്നില്ല R ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു പൊതു പ്രവർത്തനം നടത്താം പ്രായോഗികമായി പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു സംയോജനം കണ്ടെത്തി അവ ഓരോന്നും ഓരോന്നായി നമ്മൾ നോക്കും ഇപ്പോൾ നിങ്ങൾക്ക് കേസ് 1 ഉണ്ട് അവിടെ നിങ്ങൾ അച്ചുതണ്ട് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ n 0 ന് തുല്യമാണ് ഈ വിഭാഗത്തിലെ വളരെ പ്രസിദ്ധമായ പ്രശ്നങ്ങളിലൊന്നാണ് കട്ടിയുള്ള സിലിണ്ടറിന്റെ പ്രശ്നം നേർത്ത സിലിണ്ടറിന് നിങ്ങൾക്ക് p r ഹരിക്കണം t p r ഹരിക്കണം 2 t അറിയാം നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയും എനിക്ക് കട്ടിയുള്ള സിലിണ്ടർ ഉള്ളപ്പോൾ നിങ്ങൾ ഇലാസ്തികത സിദ്ധാന്തമനുസരിച്ച് പോകണം ഇതിനുള്ള സ്ട്രെസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് A r സ്ക്വയേർഡ് നാച്ചുറൽ ലോഗരിതം r കൂട്ടണം B r സ്ക്വയേർഡ് പ്ലസ് C നാച്ചുറൽ ലോഗരിതം r കൂട്ടണം D കൂടാതെ ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിങ്ങൾക്കറിയാം ഈ ഓരോ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ഒരു പേര് അറ്റാച്ചുചെയ്തു ഈ പ്രശ്നം ആദ്യം പരിഹരിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇതിനെ ലാമയുടെ പ്രശ്നം എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് കട്ടിയുള്ള സിലിണ്ടർ ഉണ്ട് മതിൽ കനം ഗണ്യമായി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇലാസ്തികതയുടെ സിദ്ധാന്തമനുസരിച്ച് പോകേണ്ടതുണ്ട് എന്താണ് ഇവിടെയുള്ള ഡൊമെയ്ൻ നമ്മൾ ചർച്ചചെയ്തു ബന്ധിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെ ബന്ധിപ്പിച്ച് ഗുണിക്കുന്നതെന്താണ് ഇത് യഥാർത്ഥത്തിൽ ഗുണിച്ച കണക്റ്റുചെയ്ത ഒബ്ജക്റ്റാണ് ഈ സാഹചര്യത്തിൽ ദ്വി ഹാർമോണിക് സമവാക്യവും അതിർത്തി അവസ്ഥയും മാത്രം തൃപ്തിപ്പെടുത്തുന്നത് പര്യാപ്തമല്ല നിങ്ങൾ ഒരിക്കൽ മോതിരം ചുറ്റിക്കറങ്ങുമ്പോൾ സ്ഥാനചലനം അദ്വിതീയമാണോ എന്നും നിങ്ങൾ നോക്കണം ഗുണകം A പൂജ്യമാക്കാൻ അത്തരം വാദം ആവശ്യമാണ് അതിനാൽ നിങ്ങൾ ലാമിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിച്ചെന്ന് ഓർക്കുന്നുവെങ്കിൽ സ്ഥാനചലന ചിത്രം നോക്കിയാൽ A എന്ന ഗുണകം 0 ആയിരിക്കണമെന്ന് നിങ്ങൾ പറയും ഇത് വളരെ പ്രധാനമാണ് ഇലാസ്തികത സിദ്ധാന്തത്തിൽ കാണുക നമ്മൾ സ്ഥലംമാറ്റത്തെക്കുറിച്ച് ഒരു അനുമാനവും നടത്തുന്നില്ലെന്ന് നമ്മൾ പറയുന്നു സ്ഥാനമാറ്റ വിവരങ്ങളുടെ ചില വശങ്ങൾ പരിഹാര നടപടിക്രമത്തിനും ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിഹരിക്കാനാകും മറ്റൊരു വിഭാഗം ദയവായി ഇതിന്റെ വിശദമായ രേഖാചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുക അതുതന്നെ തുടക്കത്തിൽ വളഞ്ഞ ബീം ശുദ്ധമായ വളവിലും സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് വളരെയധികം പ്രായോഗിക ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം തുടക്കത്തിൽ ബീം വളച്ചുകെട്ടുന്നു നിങ്ങൾ ഒരു ക്രെയിൻ ഹുക്ക് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇത് കത്രികയ്ക്കും വളയുന്ന നിമിഷത്തിനും വിധേയമാണ് അതിനാൽ ഇത് കത്രികയ്ക്ക് വിധേയമായാൽ അത് പരിഹരിക്കാൻ മറ്റൊരു സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിക്കണം നമ്മൾ ലീനിയർ രേഖീയമായ ഇലാസ്തികത ഡൊമെയ്നിൽ ജീവിക്കുന്നതിനാൽ ലീനിയർ സൂപ്പർപോസിഷൻ സാധ്യമാണ് അതിനാൽ സൂപ്പർപോസിഷൻ സാധ്യമാണ് ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു സാങ്കേതികതയാണ് നിങ്ങൾക്ക് ലീനിയർ ഇലാസ്തികത ഉള്ളപ്പോൾ വാസ്തവത്തിൽ സൂപ്പർപോസിഷൻ ഒരു ഉപയോഗപ്രദമായ ആശയമാണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനും നമ്മൾ ഇത് വിപുലീകരിക്കും അതിനാൽ സൂപ്പർപോസിഷന്റെ തത്വം വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്നാണ് അതിനാൽ ഒരേ സ്ട്രെസ് ഫംഗ്ഷനോടുകൂടിയ തുടക്കത്തിൽ വളഞ്ഞ ബീമുകൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണാനാകും അതിനാൽ സംഭവിക്കുന്നത് ഗുണകങ്ങൾ വ്യത്യാസപ്പെടും ഇത് ലോഡിംഗിനെയും നിർദ്ദിഷ്ട പ്രശ്നത്തിന്റെ അതിർത്തി അവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മറ്റൊരു കൂട്ടം സ്ട്രെസ് ഫംഗ്ഷനുകളും നിർമ്മിക്കാൻ കഴിയും ആദ്യം നമ്മൾ കേസ് n 0 ത്തിനു തുല്യമായി കണ്ടു അതിനെ ഒരു അച്ചുതണ്ട് സാഹചര്യമായി ലേബൽ ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ n 1 ന് തുല്യമായ അവസ്ഥയിലേക്ക് പോകുന്നു സ്ട്രെസ് ഫംഗ്ഷന്റെ ഒരു പൊതു രൂപം നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ അത് ഫൈ സമം f 1 r കോസ് തീറ്റ എന്ന് മാറ്റിയെഴുതപ്പെടും കോസ് n തീറ്റ എന്നതിനുപകരം n ഇവിടെ 1 ആയി മാറി അതിനാൽ ഇത് കോസ് തീറ്റയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് f 1 r സൈൻ തീറ്റ r ഗുണിക്കണം സൈൻ തീറ്റയുടെ ഒരു പ്രവർത്തനമാണ് ഫംഗ്ഷൻ എന്ന് ഉണ്ട് R ന്റെ ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ ഇതിനെ 1 എന്ന് ഇടുന്നത് കാരണം നമ്മൾ f സഫിക്സ് n എന്ന പൊതുവായ സാഹചര്യത്തിലും എഴുതിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ n നെ 1 ന് തുല്യമായി സംസാരിക്കുന്നു അതിനാൽ ഇത് f സഫിക്സ് 1 ആയി മാറുന്നു അതിനാൽ r ന്റെ പ്രവർത്തനം ഇപ്രകാരം എടുക്കുന്നു A 1 r ക്യൂബ് കൂട്ടണം B1 ഹരിക്കണം r കൂട്ടണം C1 r കൂട്ടണം D1 r ln r വളഞ്ഞ ബീമുകളുടെ കത്രിക ലോഡിംഗ് മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കണ്ടെത്തുന്നതിന് ഇത് ഉപയോഗപ്രദമായ ഒരു സ്ട്രെസ് ഫംഗ്ഷനാണ് ഇതെല്ലാം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥ എഞ്ചിനീയറിംഗ് പരിശീലനത്തിൽ നിങ്ങൾക്ക് അവ ഒഴിവാക്കാനാവില്ല ഈ പരിഹാരങ്ങളിൽ ചിലത് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഇലാസ്റ്റിറ്റി വിശകലന സിദ്ധാന്തത്തിൽ നിന്നാണ് വരുന്നത് n എന്നത് 0 ന് തുല്യവും n 1 ന് തുല്യവുമായി നമ്മൾ കണ്ടു അടുത്ത ഘട്ടം n 2 ന് തുല്യമാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് n നെ 2 നെക്കാൾ വലുതോ തുല്യമോ ആണ് നിങ്ങൾക്ക് ഒരു പൊതുവായ പദപ്രയോഗമുണ്ട് ഇവിടെ ഫൈ നെ നിർവചിച്ചിരിക്കുന്നത് f n r കോസ് n തീറ്റ അല്ലെങ്കിൽ f n r സൈൻ n തീറ്റ r ന്റെ ജനറിക് ഫംഗ്ഷൻ A n r പവർ തവണ n കൂട്ടണം B n r പവർ മൈനസ് n കൂട്ടണം C n r പവർ n കൂട്ടണം 2 കൂട്ടണം D n r പവർ മൈനസ് n കൂട്ടണം 2 ആയി നൽകിയിരിക്കുന്നു ഒരു ചെറിയ മൊത്തത്തിലുള്ള അനന്തമായ ഒരു ചെറിയ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമായ ഒരു സ്ട്രെസ് ഫംഗ്ഷനാണെന്ന് നിങ്ങൾക്കറിയാം ഒരു പരിമിത സ്ക്രീൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതെന്ന് കാണുക അതിനാൽ എനിക്ക് ഒരു പരിമിത ഡയഗ്രം വരയ്ക്കേണ്ടതുണ്ട് n 2 ന് തുല്യമാകുമ്പോൾ അനന്തമായ പിരിമുറുക്കത്തിന് വിധേയമായ അനന്തമായ പ്ലേറ്റിലെ ഒരു ചെറിയ ദ്വാരത്തിന്റെ കാര്യത്തിൽ സ്ട്രെസ് വിതരണത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗപ്രദമാണ് സൂപ്പർപോസിഷന്റെ തത്വത്തെ വിലമതിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് പരിഹാരത്തിന്റെ ചില വശങ്ങളും നമ്മൾ കാണും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് വളരെ നല്ല വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ അറിയാം ഈ അവസ്ഥയിലെ സ്ട്രെസ് ഫംഗ്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു സ്ട്രെസ് ഫംഗ്ഷന്റെ മറ്റ് രൂപങ്ങളും ഉണ്ട് നിങ്ങൾ C r തീറ്റ സൈൻ തീറ്റ എന്നാണ് ഫൈ യെ നിർവചിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം r ന്റെ പ്രവർത്തനം കേവലം r ആണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ തീറ്റയുടെ പ്രവർത്തനം അല്പം ഉൾപ്പെടുന്നു നിങ്ങൾക്ക് മറ്റൊരു സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം അത് C r തീറ്റ കോസ് തീറ്റ എന്ന് നിർവചിക്കപ്പെടുന്നു ഇത് വളരെ ഉപയോഗപ്രദമായ സമ്മർദ്ദ പ്രവർത്തനമാണ് പ്രായോഗിക താൽപ്പര്യമുള്ള നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്കായി ഈ കണക്ക് വലുതാക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇവിടെയുള്ളത് എനിക്ക് അർദ്ധ അനന്തമായ പ്ലേറ്റിൽ കേന്ദ്രീകൃത ലോഡ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ അനന്തമായ അതിർത്തിയുണ്ട് എനിക്ക് കേന്ദ്രീകൃത ലോഡ് ഉണ്ട് ഒരു ചെരിവിൽ എനിക്ക് ഒരു ലോഡ് ഉണ്ട് എനിക്ക് ഉപരിതലത്തിൽ സ്പർശിക്കുന്ന ഒരു ലോഡ് ഉണ്ട് നിങ്ങൾ ഡയഗ്രം ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ തീറ്റയെ ശ്രദ്ധാപൂർവ്വം നിർവചിച്ചുകൊണ്ട് ഒരേ സ്ട്രെസ് ഫംഗ്ഷൻ C r തീറ്റ സൈൻ തീറ്റ അല്ലെങ്കിൽ C r തീറ്റ കോസ് തീറ്റ ഈ മൂന്ന് കേസുകൾക്കും അപേക്ഷിക്കാം റഫറൻസ് പോയിന്റിൽ നിന്ന് ലോഡിംഗ് എന്നാണ് തീറ്റയെ നിർവചിച്ചിരിക്കുന്നത് ലോഡുചെയ്യുന്നത് തിരശ്ചീനമാണ് നിങ്ങൾ ഇതിൽ നിന്ന് തീറ്റ അളക്കുന്നു ഇതിൽ നിന്ന് ലംബമായ അളവ് തീറ്റയാണ് ലോഡുചെയ്യുന്നത് ലോഡുചെയ്യുന്ന അക്ഷത്തിൽ നിന്ന് ചരിഞ്ഞ അളവ് തീറ്റയാണ് അതിനാൽ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞാൽ പ്രധാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുടെ ഒരു കുടുംബം നിങ്ങൾ പുനർനിർവചിക്കുന്നതിലൂടെ തീറ്റയെ എങ്ങനെ അളക്കുന്നുവെന്ന് ലഭിക്കും ഈ എല്ലാ കേസുകൾക്കും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും നിങ്ങൾ കേന്ദ്രീകൃത ലോഡ് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബോസ്സിനെസ്ക് പ്രശ്നം പോലെയാണ് നിങ്ങൾക്ക് ഇതിന്റെ വിപുലീകരണം ഉണ്ട് നിങ്ങൾ കോൺടാക്റ്റ് സ്ട്രെസ് വിശകലനം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആരംഭിച്ചത് ഹെർട്സ് വിപുലീകരിച്ച ബോസ്സിനെസ്ക്ന്റെ ഈ അടിസ്ഥാന പരിഹാരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഹെർട്ട്സിയൻ കോൺടാക്റ്റ് പ്രശ്നമുണ്ട് വ്യാസമുള്ള കംപ്രഷന് കീഴിലുള്ള ഒരു ഡിസ്കിനുള്ള പരിഹാരം എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ പരിശോധിച്ചു അതും ഈ അടിസ്ഥാന പരിഹാരത്തിൽ നിന്ന് വരുന്നു ഇതിൽ നിന്ന് അടിസ്ഥാന പരിഹാരമെന്ന നിലയിൽ വ്യാസം കംപ്രഷന് കീഴിലുള്ള ഒരു ഡിസ്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമായ പരിഹാരമാണ് ഒരു വെഡ്ജ് പ്രശ്നത്തിന്റെ കാര്യവും നിങ്ങൾക്ക് കണ്ടെത്താനാകും അതേ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗപ്രദമാണ് വെഡ്ജ് പ്രശ്നത്തിന്റെ പ്രയോഗം നിങ്ങൾ എവിടെ കണ്ടെത്തും ഒരു കട്ടിംഗ് ഉപകരണം വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ മാച്ചിംഗ് പ്രവർത്തനം നടത്തുമ്പോൾ കട്ടിംഗ് ഉപകരണം മെറ്റൽ നീക്കംചെയ്യുന്നു നിങ്ങൾക്ക് കട്ടിംഗ് ഉപകരണം വിശകലനം ചെയ്യണമെങ്കിൽ വെഡ്ജ് പ്രശ്നം നടപ്പിലാക്കാം അതിനാൽ ഒരു പ്രായോഗിക കാഴ്ചപ്പാടിൽ ധ്രുവീയ കോർഡിനേറ്റുകളിലെ സ്ട്രെസ് ഫംഗ്ഷൻ നോക്കിയാൽ വളരെ നല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും അതിനാൽ ധ്രുവീയ ഏകോപനം വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾ വളരെയധികം പ്രായോഗിക പ്രശ്നങ്ങൾ കണ്ടെത്തി ധ്രുവീയ കോർഡിനേറ്റുകളിൽ പ്രകടിപ്പിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിന്റെ പ്രശ്നം നമ്മൾ ഇപ്പോൾ നോക്കും അതിന്റെ ഹൈലൈറ്റ് മാത്രം ഞാൻ പൂർണ്ണമായ പരിഹാരത്തിലേക്ക് കടക്കില്ല ഇലാസ്തികത സിദ്ധാന്തത്തിലെ ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പേര് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരത്തിന്റെ ഈ പ്രശ്നത്തിന് 1898 ൽ കിർഷ് ആണ് ഇത് പരിഹരിച്ചത് ഇത് കിർഷിന്റെ പ്രശ്നം എന്നറിയപ്പെടുന്നു ആനിമേഷനായി നമുക്ക് നല്ലൊരു സൌകര്യം ഉള്ളതിനാൽ ചിത്രീകരണത്തിനായി ഞാൻ ഇത് ഇതുപോലെയാണ് എടുത്തത് നിങ്ങൾക്ക് കാഴ്ചയിൽ ആകർഷകമാകുന്ന ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് ഉണ്ട് പക്ഷെ ഒരു പരിമിത ഡൊമെയ്നിൽ ഇത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പരിമിത ഡയഗ്രം എടുക്കണം ദ്വാരത്തിൽ ഞാൻ എങ്ങനെയുള്ളവയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കാണുന്നതിന് ഞാൻ അതിനെ വലുതാക്കുന്നു പൊതുവായ ആശയക്കുഴപ്പങ്ങളിലൊന്ന് ഞാൻ വിദ്യാർത്ഥികളിൽ കണ്ടുവന്നിട്ടുള്ളതാണ് ഇലാസ്തികത സിദ്ധാന്തം ഒരു ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിന് മാത്രം പരിഹാരം നൽകുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നില്ല പുസ്തകങ്ങളിൽ ഇതുപോലുള്ള ഒരു പരിമിത ഡയഗ്രം കാണുന്നത് നിങ്ങൾക്ക് പരിചിതമായതിനാൽ വിദ്യാർത്ഥികൾ ഒരു പ്ലേറ്റിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ദ്വാരമുള്ള ഒരു ദ്വാരം ഉപയോഗിച്ച് പരിഹരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ചാടും നിങ്ങൾക്ക് ഇത് സ്ഥലപരിമിതി ഉള്ളതിനാൽ ഈ പരിഹാരം നേരിട്ട് ബാധകമാണെന്ന് അവർ കരുതുന്നു അതിരുകൾ ദ്വാരത്തിന്റെ അളവിൽ നിന്ന് വളരെ അകലെയാണെന്ന് നിങ്ങൾ ഊഹിക്കണം നമ്മൾ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളും ഉണ്ട് ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് ചതുരാകൃതിയിലുള്ള പ്ലേറ്റ് പോലെയാണെങ്കിലും നിങ്ങൾക്കറിയാം പരിഹാരത്തിന്റെ ഒരു മാർഗ്ഗം ഇത് അനന്തമായി പ്രകൃതിയിൽ വൃത്തത്തിലുള്ള ഒരു അതിർത്തിയായി കാണുക അതിർത്തിയുടെ അവസ്ഥ വീണ്ടും എഴുതുക നിങ്ങൾക്ക് സിഗ്മ xx മാത്രമേയുള്ളൂ ഈ സ്ട്രെസ് ഘടകങ്ങൾ ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റിന് അനുയോജ്യമായ അതിർത്തി വ്യവസ്ഥയായി മാറ്റിയെഴുതാം ധ്രുവീയ കോർഡിനേറ്റുകളിൽ നമ്മൾ ഇത് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് വൃത്താകൃതിയിലുള്ള ദ്വാരമുണ്ട് കൂടാതെ പുറം അതിർത്തിയും സർക്കിളായി എനിക്ക് ഉണ്ട് ധ്രുവീയ കോർഡിനേറ്റുകളിലെ പ്രശ്നം നോക്കുകയാണെങ്കിൽ അതിർത്തിയുടെ അവസ്ഥ വ്യക്തമാക്കുന്നത് എനിക്ക് സൌകര്യപ്രദമാണ് ഇതാണ് ഞാൻ പരാമർശിച്ചത് എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് എലിപ്റ്റിക് കോർഡിനേറ്റ് സിസ്റ്റം വികസിപ്പിക്കേണ്ടതുണ്ട് കാരണം അവർ എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ അതിർത്തിയിൽ അതിർത്തി വ്യവസ്ഥ വ്യക്തമാക്കേണ്ടതുണ്ട് ധ്രുവീയ കോർഡിനേറ്റ് സംവിധാനം കൂടുതൽ ലളിതമാണ് അതുകൊണ്ടാണ് വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് ആദ്യം പരിഹരിച്ചത് ഉപയോഗിച്ച സൂപ്പർപോസിഷന്റെ തത്വത്തെക്കുറിച്ചും നമുക്ക് ഒരു ഹ്രസ്വ വീക്ഷണം ഉണ്ടാകും ഞാൻ അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫോട്ടോഇലാസ്റ്റിസിറ്റി കാരണം രൂപംകൊണ്ട നല്ലൊരു കൂട്ടം ചുരുൾ മാതൃകകൾ ഉണ്ട് ഇത് ഒരു പരിമിത പ്ലേറ്റിനുള്ളതാണ് ഇത് ആശയക്കുഴപ്പത്തിലാക്കരുത് ഇത് ഒരു ദ്വാരമുള്ള ഒരു പരിമിത പ്ലേറ്റിനുള്ളതാണ് ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിനല്ല അതിനാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെന്റ് വെനന്റ് തത്ത്വമാണ് ഉപയോഗിക്കുന്നത് ചെറിയ കേന്ദ്ര ദ്വാരം ദ്വാരത്തിന്റെ വ്യാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അകലത്തിലുള്ള സമ്മർദ്ദ വിതരണത്തെ ബാധിക്കില്ല അതിനാൽ ഞാൻ r എടുക്കുന്നത് a യെക്കാൾ വളരെ വലുതാണ് പക്ഷേ ചിത്രപരമായി ഇത് ഈ രീതിയിൽ പ്രതിനിധീകരിക്കുന്നു എന്നാൽ ഗണിതശാസ്ത്രപരമായി തിരിച്ചറിയുന്ന R a യെക്കാൾ വളരെ വലുതാണ് ഇതാണ് നിങ്ങൾക്കുള്ള സ്ട്രെസ് ഫീൽഡ് സ്ട്രെസ് ടെൻസറിൽ നിന്ന് നമുക്ക് അത് ലഭിക്കും സ്ട്രെസ് ടെൻസർ സിഗ്മ xx 0 0 0 ആയി നൽകിയിരിക്കുന്നു ഇത് ഒരു ദ്വിമാന പ്രശ്നമാണ് ദ്വാരത്തിന്റെ അതിർത്തിയിൽ ഉചിതമായ അതിർത്തി അവസ്ഥയായി വിദൂര ഫീൽഡ് സമ്മർദ്ദം എന്തായാലും നമ്മൾ ഇത് മാറ്റിസ്ഥാപിക്കും അനുയോജ്യമായ സമ്മർദ്ദ പരിവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ എനിക്ക് ദിശ കോസൈൻ മാട്രിക്സ് ഉണ്ട് ഞാൻ തീറ്റയിൽ ഒരു പൊതു വിഭാഗം എടുക്കുന്നു R നും x നും ഇടയിൽ ഇത് കോസ് തീറ്റയാണ് R നും y നും ഇടയിൽ അത് സൈൻ തീറ്റയാണ് തീറ്റയ്ക്കും x ദിശയ്ക്കും ഇടയിൽ ഇത് മൈനസ് സൈൻ തീറ്റയാണ് തീറ്റയ്ക്കും y നും ഇടയിൽ ഇത് കോസ് തീറ്റയാണ് സൂപ്പർപോസിഷന്റെ തത്വത്തിന്റെ ചിത്രീകരണം സ്ട്രെസ് ടെൻസർ എന്താണെന്ന് നമുക്കറിയാം കോസൈൻ മാട്രിക്സ് ദിശയെ ഗുണിച്ച് ധ്രുവീയ കോർഡിനേറ്റുകളിലെ സ്ട്രെസ് ടെൻസർ എനിക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു ട്രാൻസ്പോസ് മാറ്റം ആയി ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് കോസ് തീറ്റ കുറക്കണം സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ അതിനാൽ ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു പരിഹാര നടപടിക്രമം സുഗമമാക്കുന്നതിന് ബാഹ്യ അതിർത്തി വൃത്താകൃതിയിലുള്ളതിനാൽ പ്രശ്നം വീണ്ടും പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പരിഹാരത്തിനുള്ള മറ്റ് രീതികളും ഉണ്ടെന്ന് കാണുക ആളുകൾ ബാഹ്യ അതിർത്തിയെ ദീർഘചതുരമായി സ്വീകരിച്ചു അവയും മുന്നോട്ട് പോയി അതു ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം എന്നാൽ ഇത് വളരെ ലളിതമായ മറ്റൊരു രീതിയാണ് പരിഹാരത്തിലേക്ക് എത്താൻ നമ്മൾ സൂപ്പർപോസിഷന്റെ തത്വം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് എന്റെ താൽപര്യം എന്റെ ശ്രദ്ധ അതിൽ മാത്രമാണ് കാരണം എനിക്ക് സൂപ്പർപോസിഷന്റെ തലത്തിലേക്ക് പോകേണ്ടിവന്നാൽ ദ്വാരത്തിന്റെ അതിർത്തിയിലുള്ള സ്ട്രെസ് ഘടകങ്ങൾ ഞാൻ പരിശോധിക്കുകയും പ്രശ്നം വീണ്ടും വിശദീകരിക്കുകയും വേണം അതിനാൽ എക്സ്പ്രഷനിൽ നിന്ന് സിഗ്മ xx ഹരിക്കണം 2 ഗുണിക്കണം 1 കൂട്ടണം കോസ് 2 തീറ്റയായി സിഗ്മ rr ലഭിക്കും തുടർന്ന് ടോ r തീറ്റയെ മൈനസ് സിഗ്മ xx ഹരിക്കണം 2 സൈൻ 2 തീറ്റ ഈ നല്ല ചിത്രം പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ ദ്വാരത്തിൽ നിങ്ങൾക്ക് അതിർത്തി വ്യവസ്ഥയുള്ളതെന്തും രണ്ട് പ്രശ്നങ്ങളുടെ സൂപ്പർപോസിഷനായി കണക്കാക്കാം ഇവിടെ എനിക്ക് സിഗ്മ xx ഹരിക്കണം 2 ഉണ്ട് അതിർത്തിയിലുടനീളം ഒരേപോലെ പ്രവർത്തിക്കുന്ന സിഗ്മ xx ഹരിക്കണം 2 ഉള്ള ഒരു വൃത്താകാരമായ പ്ലേറ്റായി ഇതിനെ കാണുക ഇത് ഒരു പ്രശ്നമാണ് ഇതിനായി നിങ്ങൾക്ക് ഇതിനകം ഒരു പരിഹാരമുണ്ട് ഇത് നിങ്ങളുടെ ലാമിന്റെ പ്രശ്നമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട് ഞാൻ ഒരു ലോഡിംഗ് മാത്രം കാണിച്ചു സിഗ്മ xx ഹരിക്കണം 2 ഗുണിക്കണം കോസ് 2 തീറ്റയിലേക്ക് ലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ചിത്ര സ്കെച്ച് വളരെ രസകരമാണ് പല പുസ്തകങ്ങളിലും നിങ്ങൾ കണ്ടെത്തിയേക്കില്ല ഇതിനുപുറമെ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ടോ r തീറ്റയും ഉണ്ട് നിങ്ങൾ ഇത് വരച്ചതിനുശേഷം അതും നമ്മൾ കാണിക്കും മൈനസ് സിഗ്മ xx ഹരിക്കണം 2 ഗുണിക്കണം സൈൻ 2 തീറ്റ യുടെ വ്യതിയാനം എങ്ങനെ ദൃശ്യമാകുമെന്ന് നമ്മൾ നോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം എനിക്ക് ഇത് വലുതാക്കാം അതിനാൽ ഇതാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അത് അതിർത്തിയിൽ വരയ്ക്കാം അതിനാൽ ഇത് പോസിറ്റീവ് മൂല്യങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് നെഗറ്റീവ് മൂല്യങ്ങളെ സൂചിപ്പിക്കുന്നു അതാണ് പ്രതീകാത്മകത ഉപയോഗിച്ചിരിക്കുന്നത് കത്രിക സമ്മർദ്ദവും നമ്മൾ പരിശോധിക്കും കത്രിക സമ്മർദ്ദ വ്യതിയാനം ഇതുപോലെയായിരിക്കും കത്രിക സമ്മർദ്ദ വ്യതിയാനം ഇതുപോലെയായിരിക്കും ഇത് മൈനസ് സിഗ്മ xx ഹരിക്കണം 2 സൈൻ 2 തീറ്റ ആണ് അതിനാൽ ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള രണ്ട് ലോഡിംഗും നിലവിലുണ്ട് നിങ്ങൾക്ക് സിഗ്മ xx ഹരിക്കണം 2 കോസ് 2 തീറ്റയും മൈനസ് സിഗ്മ xx ഹരിക്കണം 2 സൈൻ 2 തീറ്റയും വീതമുണ്ട് അതിനാൽ നമ്മൾ നോക്കിയത് അനന്തമായ പ്ലേറ്റിലെ ഒരു ചെറിയ ദ്വാരത്തിന്റെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു അനന്തമായ ചതുരാകൃതിയിലുള്ള പ്ലേറ്റ് ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റിലെ ചെറിയ ദ്വാരമായി പുനർനിർമ്മിക്കുന്നു അതിർത്തി അവസ്ഥയെ നമ്മൾ ഉചിതമായി പരിശോധിച്ചു അതിർത്തി അവസ്ഥ നോക്കുന്നതിലൂടെ ഇത് രണ്ട് ഉപ പ്രശ്നങ്ങളായി വിഭജിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരു നിർദ്ദിഷ്ട ലോഡിംഗിലെ നിങ്ങളുടെ പരമ്പരാഗത ലാമിന്റെ പ്രശ്നമാണ് ഒരു പ്രശ്നം ലോഡിംഗ് ഇവിടെ വ്യത്യസ്തമാണ് ആ ലോഡിംഗ് ഞങ്ങൾ ഇപ്പോൾ കണ്ടു നിങ്ങൾക്ക് സ്ട്രെസ് ഘടകങ്ങളായ സിഗ്മ xx ഹരിക്കണം 2 കോസ് 2 തീറ്റയും സിഗ്മ xx ഹരിക്കണം 2 സൈൻ 2 തീറ്റയുമാണ് മറ്റൊരു പ്രശ്നം സ്ട്രെസ് ഫംഗ്ഷന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ എന്നിവയുടെ രൂപത്തിലാണ് അതാണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരം ഒരു സ്ട്രെസ് ഫംഗ്ഷൻ എടുക്കാൻ കഴിയുന്നത് അനന്തമായ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് n അത് 2 ന് തുല്യമെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ ആ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ച് ഇവ രണ്ടും ചേർക്കുക ഞാൻ ഇവിടെ സിഗ്മ xx ഘടകം 1 ഘടകം 2 ഇവിടെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് അവ ചേർക്കാൻ കഴിയും കാരണം നമ്മൾ ജീവിക്കുന്നത് ലീനിയർ ഇലാസ്തികതയുടെ ഡൊമെയ്നിലാണ് ലീനിയർ ഇലാസ്തികതയിൽ സൂപ്പർപോസിഷന്റെ തത്വമാണ് വളരെ ശക്തമായ ഒരു രീതി ഫ്രാക്ചർ മെക്കാനിക്സ് പ്രശ്നങ്ങളിൽ സ്ട്രെസ് തീവ്രത ഘടകം കണ്ടെത്തുന്നതിനുള്ള ചില പരിഹാരങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ സൂപ്പർപോസിഷന്റെ തത്വം ഉപയോഗിക്കുകയും സമ്മർദ്ദ തീവ്രത ഘടകങ്ങൾ വിലയിരുത്തുകയും ചെയ്യും കാരണം അവിടെ വീണ്ടും നമ്മൾ ഒരു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനായി പോകുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പരമ്പരാഗത ഇലാസ്റ്റിറ്റി സമീപന സിദ്ധാന്തത്തിൽ പോലും സൂപ്പർപോസിഷന്റെ തത്ത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഞാൻ കരുതിയത് ഇത് പുതിയ കാര്യമല്ല നിങ്ങളുടെ ലീനിയർ ഇലാസ്തികതയിൽ നിന്നാണ് ശക്തി വരുന്നത് അതാണ് പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് എലിപ്റ്റിക് അണ്ഡാകൃതിയായ കോർഡിനേറ്റുകളും പരിശോധിക്കാം ഞാൻ എലിപ്റ്റിക് കോർഡിനേറ്റുകൾ കാണിക്കും എലിപ്റ്റിക്കൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇവ ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് നിങ്ങളുടെ അടിസ്ഥാന പദപ്രയോഗത്തിൽ നിന്നാണ് വരുന്നത് x സ്ക്വയേർഡ് ഹരിക്കണം കോസ് h സ്ക്വയർഡ് ആൽഫ കൂട്ടണം y സ്ക്വയർ ഹരിക്കണം സൈൻ h സ്ക്വയേർഡ് ആൽഫ സി സ്ക്വയറിന് തുല്യമാണ് ആൽഫയുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് ഒരാൾക്ക് കോൺഫോക്കൽ ദീർഘവൃത്തങ്ങൾ ലഭിക്കും ഇവ ഇവിടെ കാണിച്ചിരിക്കുന്നു ഞാൻ സൂം ഇൻ ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് കോൺഫോക്കൽ ദീർഘവൃത്തങ്ങളുണ്ട് അതിനാൽ ആൽഫ എന്താണെന്ന് വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ദ്വാരത്തിന്റെ അതിർത്തി നിർവചിക്കുന്നു അതിനാൽ അതിർത്തി വ്യവസ്ഥ വ്യക്തമാക്കാൻ ഇത് സൌകര്യപ്രദമാണ് ഇലാസ്തികത സിദ്ധാന്തത്തിന്റെ ആദ്യകാല വികാസത്തിൽ ഞാൻ ഊന്നിപ്പറയുന്നത് അവർക്ക് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടിവരുമ്പോൾ അവർക്ക് അനുയോജ്യമായ കോർഡിനേറ്റ് സംവിധാനവും വികസിപ്പിക്കേണ്ടിവന്നു എയ്റോസ്പേസ് ഘടനയിൽ വളഞ്ഞ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നു അതിനാൽ അവർ വളഞ്ഞ കോർഡിനേറ്റ് സംവിധാനം വികസിപ്പിച്ചു അവർ ഗോളത്തെ വിശകലനം ചെയ്യണമെങ്കിൽ അവർ ഗോളീയ കോർഡിനേറ്റ് സിസ്റ്റവും സ്ഫെറിക്കൽ ബൈപോളാർ കോർഡിനേറ്റ് സിസ്റ്റവും വികസിപ്പിച്ചെടുത്തിരുന്നു ഇവയെല്ലാം അക്കാലത്തെ പ്രധാനപ്പെട്ട ഗവേഷണ സംഭാവനകളായിരുന്നു അതിനാൽ അനുയോജ്യമായ കോർഡിനേറ്റ് സംവിധാനം ഇല്ലാതെ യഥാർത്ഥ പ്രയോഗത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സങ്കീർണ്ണമായ അതിരുകൾ ചുരുങ്ങിയത് കൈകാര്യം ചെയ്യുന്നതിനായി നിങ്ങളുടെ പരിധി മൂലക പരിഹാരങ്ങൾ അടിസ്ഥാനപരമായി സാംഖിക സമീപനത്തിലൂടെ മീഡിയ വഴി ഒരു വഴി നൽകി അതിനാൽ നിങ്ങളുടെ സംഖ്യാ സങ്കേതങ്ങളുടെ പ്രയോജനം അതാണ് അതിനാൽ വിശകലനപരമായ സമീപനത്തിലൂടെ എനിക്ക് ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അനുയോജ്യമായ കോർഡിനേറ്റ് സംവിധാനവും ഞാൻ വികസിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഒരു സ്ഥിരാങ്കത്തിന് തുല്യമായ ആൽഫ വ്യക്തമാക്കുകയും തുടർന്ന് ദീർഘവൃത്തത്തിന്റെ ആന്തരിക അതിർത്തി എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യുക നിങ്ങൾക്ക് ആൽഫയും ബീറ്റയും ഉണ്ട് നിങ്ങൾക്ക് പ്രധാനമായും സിഗ്മ ആൽഫ ആൽഫയും സിഗ്മ ബീറ്റ ബീറ്റയും ലഭിക്കും നിങ്ങളുടെ ഡാറ്റാ വ്യാഖ്യാനത്തിന് അനുയോജ്യമായ അളവുകളായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു അതിനാൽ നിങ്ങൾക്കുള്ളത് എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ അർദ്ധ പ്രധാന അർദ്ധ അപ്രധാനമായ അക്ഷങ്ങൾ a സമം c കോസ് h ആൽഫ നോട്ടിനും b സമം c സൈൻ h ആൽഫ നോട്ടിനും തുല്യമായി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് ഇലാസ്തികതയുടെ സിദ്ധാന്തത്തിന്റെ ചില വശങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര അവലോകനം നൽകുന്നു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും ധ്രുവീയ കോർഡിനേറ്റ് സംവിധാനവും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ലഭിക്കുന്ന നിമിഷം നിങ്ങൾ പരിഹാരത്തിലെത്താൻ കഴിയുന്ന അവസ്ഥയിലാണ് അതിനാൽ ആരംഭ പോയിന്റ് ഒരു സ്ട്രെസ് ഫംഗ്ഷനാണ് ആളുകൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ എങ്ങനെ ലഭിക്കും എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് വിശകലന പ്രവർത്തനങ്ങൾ നോക്കൂ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രശ്നം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഫ്രാക്ചർ മെക്കാനിക്സിലെ സ്ട്രെസ് ഫംഗ്ഷൻ രൂപപ്പെടുത്തുന്നതിന് അനലിറ്റിക് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു അതാണ് വെസ്റ്റർഗാർഡ് ഉപയോഗിച്ചത് അതിനാൽ ഒരു വിശകലന പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഡെറിവേറ്റീവ് ഉള്ളപ്പോൾ ഒരു ഫംഗ്ഷൻ വിശകലനമാണോയെന്ന് നിങ്ങൾക്കറിയാം w z ന്റെ ഫങ്ഷന് തുല്യമായ ഒരു സങ്കീർണ്ണ വേരിയബിളിന്റെ പ്രവർത്തനത്തിന്റെ ഡെറിവേറ്റീവുകളെ dw ഹരിക്കണം dz എന്ന് നിര്വചിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സമാനമായ നൊട്ടേഷണൽ വ്യാഖ്യാനമുണ്ട് നിങ്ങൾ W പ്രൈം ഇടുന്നു നിങ്ങൾ 1 പ്രൈം ഇടുകയാണെങ്കിൽ അത് dw ഹരിക്കണം dz f പ്രൈം z നു തുല്യമാണ് ലിമിറ്റ് ഡെൽറ്റ z 0 ആയി മാറുന്നു നിങ്ങൾ പ്രവർത്തനം z കൂട്ടണം ഡെൽറ്റ z കുറക്കണം z ന്റെ ഫങ്ഷൻ ഹരിക്കണം ഡെൽറ്റ z ആയി വിലയിരുത്തുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം ഈ വ്യത്യാസം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ നോക്കേണ്ട ഏറ്റവും മികച്ച വശങ്ങൾ എന്തൊക്കെയാണ് Z എന്നത് ഒരു സങ്കീർണ്ണ സംഖ്യയാണ് z x കൂട്ടണം i y ക്ക് തുല്യമാണ് അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നതിനാണ് ഡെൽറ്റ z 0 നെ എങ്ങനെ സമീപിച്ചാലും ഘടകത്തിന്റെ പരിധി തുല്യമായിരിക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ അത് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഈ ഫംഗ്ഷനെ ഒരു യഥാർത്ഥ ഭാഗമായി നോക്കുന്നു u x y പ്ലസ് സാങ്കൽപ്പിക ഭാഗം i ഗുണിക്കണം x ന്റെ v y ആയി നൽകിയിരിക്കുന്നു യഥാർത്ഥ ഭാഗം u x y ആണ് സാങ്കൽപ്പിക ഭാഗം v x y ആണ് ഡെറിവേറ്റീവ് നിലവിലുണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മൾ ഇതിനകം പറഞ്ഞു അതിനാൽ dw ഹരിക്കണം dz നിർവചനം ലിമിറ്റ് ഡെൽറ്റ z 0 ത്തിലേക്ക് ഡെൽറ്റ w ഹരിക്കണം ഡെൽറ്റ z ആയി മാറുന്നു അതിനാൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഡെൽറ്റ z യഥാർത്ഥമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഡെൽറ്റ y 0 ത്തിന് തുല്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഡെൽറ്റ z ആ സന്ദർഭത്തിൽ സാങ്കൽപ്പികമാണ് ഡെൽറ്റ x 0 ത്തിന് തുല്യമാണ് അതിനാൽ എങ്ങനെയാണെങ്കിലും ഡെൽറ്റ z 0 ത്തിലേക്ക് സമീപിക്കുന്നു അത് ഇവിടെ ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആദ്യ കേസിൽ ഡെൽറ്റ x 0 ത്തിന് തുല്യമാണ് ഡെൽറ്റ z i ഡെൽറ്റ y ക്ക് തുല്യമാണ് അതിനാൽ ഇത് ഇതുപോലെ വ്യത്യാസപ്പെടുന്നു രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ഡെൽറ്റ y 0 ത്തിന് തുല്യമാണ് ഡെൽറ്റ z ഡെൽറ്റ x ന് തുല്യമാണ് അതിനാൽ ഇത് ഇതുപോലെ വ്യത്യാസപ്പെടുന്നു ഡെൽറ്റ y ഡെൽറ്റ x എന്നിവ മാറുന്ന ഒരു കേസ് നിങ്ങൾക്ക് ഉണ്ടാകാം അതിനാൽ അവ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു രേഖീയ ബന്ധമാണ് അല്ലെങ്കിൽ അത് ഒരു വളവിലേക്കും നീങ്ങാം അതിനാൽ ഡെൽറ്റ z ഏത് രീതിയിലാണ് 0 ത്തെ സമീപിക്കുന്നതെന്ന് ഇപ്പോൾ ഉറപ്പാക്കേണ്ടതുണ്ട് സങ്കീർണ്ണമായ പ്രവർത്തനം സൃഷ്ടിക്കുന്ന യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗങ്ങൾക്കിടയിൽ ചില നിബന്ധനകൾ നടപ്പിലാക്കുന്ന dw ഹരിക്കണം dz ന്റെ ഒരു അദ്വിതീയ മൂല്യം എനിക്ക് ഉണ്ടായിരിക്കണം ഈ അവസ്ഥകൾ നിങ്ങൾ വികസിപ്പിച്ചെടുത്തു നിങ്ങൾ അറിയണം അതിന്റെ പിന്നിലെ കാരണം എന്താണ് ഡെൽറ്റ z ഏത് വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഒരു അദ്വിതീയ പരിഹാരം ലഭിക്കണം ഇപ്പോൾ നമ്മൾ ഓരോ കേസുകളായി എടുക്കും ഡെൽറ്റ z യഥാർത്ഥമാണെന്ന് നമ്മൾ എടുക്കും dw ഹരിക്കണം dz എന്ന് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് dw ഹരിക്കണം dz ഇത് ലിമിറ്റ് ഡെൽറ്റ x 0 ത്തിലേക്ക് എന്നതല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് x പ്ലസ് ഡെൽറ്റ x y പ്ലസ് x ന്റെ i v പ്ലസ് ഡെൽറ്റ x y കുറക്കണം x ന്റെ u y പ്ലസ് x ന്റെ i v y ഹരിക്കണം ഡെൽറ്റ x ഉണ്ട് ഇവയെ യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗങ്ങളായി തിരിക്കാം അടുത്ത ഘട്ടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതി അതാണ് നിങ്ങൾ എങ്ങനെ ഡിഫറൻഷ്യലുകൾ എഴുതുന്നു എന്നതിന്റെ അടിസ്ഥാന നിർവചനത്തിൽ നിന്ന് ഇവ സുഖകരമായി എഴുതാം നിങ്ങൾക്ക് x ന്റെ u കൂട്ടണം ഡെൽറ്റ x y കുറക്കണം x y ന്റെ u ആയി ഇത് ഉണ്ട് അതിനാൽ ഇത് എനിക്ക് എഴുതാൻ കഴിയും അവർ ഡെൽറ്റ x 0 എന്ന പരിധിയെ തൃപ്തിപ്പെടുത്തുമ്പോൾ എനിക്ക് ഇത് ഡോ u ഹരിക്കണം ഡോ x എന്ന് എഴുതാം എനിക്ക് ഇതിനെ ഡോ v ഹരിക്കണം ഡോ x എന്ന് എഴുതാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ dw ബൈ dz ഡോ u ഹരിക്കണം ഡോ x കൂട്ടണം i ഡോ v ഹരിക്കണം ഡോ x ന് തുല്യമായി കിട്ടുന്നു ഡെൽറ്റ z യഥാർത്ഥമാകുമ്പോൾ നമ്മൾ ഒരു കേസ് എടുക്കുന്നു ഡെൽറ്റ z സാങ്കൽപ്പികമാകുമ്പോൾ ഇപ്പോൾ നമ്മൾ കേസ് എടുക്കും നമുക്ക് അതേ കാര്യം എഴുതാം നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കാം അതിനാൽ ഇവിടെ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം എഴുതണം കാരണം പരിധി ഡെൽറ്റ y 0 ആയി മാറുന്നു അതിനാൽ x കൂട്ടണം i ഡെൽറ്റ y ആണ് നമ്മൾ നോക്കുന്നത് X ഇവിടെ 0 ആണ് i ഡെൽറ്റ y ചിത്രത്തിലേക്ക് വരുന്നതിനാൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് കൂടാതെ ഈ പദപ്രയോഗങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ വീണ്ടും നിങ്ങൾ പൊതുവായ പദപ്രയോഗം എഴുതുകയും അവയെ യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗങ്ങൾ കൊണ്ട് വേർതിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് 1 എന്ന് എഴുതാം നിങ്ങൾക്ക് ഇത് ഡോ v ഹരിക്കണം ഡോ y ആയി ലഭിക്കും അതിനാൽ എനിക്ക് ഇവിടെ കിട്ടുന്നത് എനിക്ക് ഇത് dw ഹരിക്കണം dz 1 ഹരിക്കണം i ഡോ u ഹരിക്കണം ഡോ y കൂട്ടണം ഡോ v ഹരിക്കണം ഡോ y ക്ക് തുല്യമാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഡോ v ഹരിക്കണം ഡോ y കുറക്കണം i ഡോ u ഹരിക്കണം ഡോ y ആണ് ഇപ്പോൾ എനിക്ക് dw ഹരിക്കണം dz ന് രണ്ട് എക്സ്പ്രഷനുകൾ ഉണ്ട് അവയ്ക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല അതിനാൽ യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗങ്ങൾ തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് തുടരും അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇലാസ്തികതയുടെ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം നടത്തി അനലിറ്റിക് ഫംഗ്ഷനുകൾ എന്താണെന്ന് അവസാനം നമ്മൾ പരിശോധിച്ചു ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കോഴ്സുകളിൽ ഇതെല്ലാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെക്കാലമായി ബന്ധം നഷ്ടപ്പെട്ടതിനാൽ നമ്മൾ അവ അവലോകനം ചെയ്യുകയും സ്ട്രെസ് ഫീൽഡുകളുടെ വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നത് അഭികാമ്യമാണ്